തിരികെ സ്വാഗതം ഇത് ലെക്ച്ചർ നമ്പർ 60 ആണ് ഇന്നു നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോഷി ഓയിലർ സമവാക്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആദ്യം കോഷി ഓയിലർ സമവാക്യങ്ങളും അവയുടെ പരിഹാര വിദ്യകളും എന്താണെന്ന് അവതരിപ്പിക്കും ഇവിടെ കോഷി ഓയിലർ സമവാക്യങ്ങൾ കോൺസ്റ്റന്റ് കോയിഫിഷ്യന്റ്കൾ ഇല്ലാത്ത സമവാക്യങ്ങളാണ് ഇതുവരെ നമ്മൾ കോൺസ്റ്റന്റ് കോയിഫിഷ്യന്റ്കൾ ഉള്ള ലീനിയർ ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ പഠിച്ചു ഇത് കോൺസ്റ്റന്റ് കോയിഫിഷ്യന്റ്കൾ ഇല്ലാത്ത ഒരുതരം പ്രത്യേക സമവാക്യമാണ് അതിനാൽ ഇവിടെ നമ്മൾ ഇത് ഇത് പോലെ കാണുന്നു അതിനാൽ ഈ കോൺസ്റ്റന്റ് കോയിഫിഷ്യന്റ്കൾ ഇല്ലാത്ത ഈ സമവാക്യം നമ്മൾ ഇവിടെ പരിഗണിക്കും ഇവിടെ ഈ എന്നീ കോയിഫിഷ്യന്റ്കൾ ഉണ്ടായിരുന്നു അവയോടൊപ്പം നമുക്ക് ഈ തുടങ്ങിയവയുണ്ട് അതിനാൽ ഈ ഡെറിവേറ്റീവ് പദങ്ങളുടെ കോയിഫിഷ്യന്റ്കളായി നമുക്ക് കോൺസ്റ്റന്റ്കളില്ലാത്തപ്പോൾ അത്തരം സമവാക്യങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് നമ്മൾ ഇന്ന് പരിശോധിക്കും ഇവിടെ ഈ ഡെറിവേറ്റീവിനെ എന്ന് സൂചിപ്പിക്കുന്നു ഓപ്പറേറ്റർ എന്നത് നമ്മൾ സാധാരണയായി ചെയ്യുന്നതാണ് അതിനാൽ നമുക്ക് ഈ സമവാക്യം ഈ രൂപത്തിൽ എഴുതാം ഇപ്പോൾ ഈ കോഷി ഓയിലർ സമവാക്യം പരിഹരിക്കാൻ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇതിൽ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അതിനാൽ തന്നിരിക്കുന്ന സമവാക്യത്തിൽ ഈ സ്വതന്ത്ര വേരിയബിൾ z ln x മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അതൊരു തന്ത്രമാണ് അവസാനം ഈ ട്രിക്ക് എന്തു ചെയ്യും ഇത് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തെ കോൺസ്റ്റന്റ് കോയിഫിഷ്യൻറുകളോട് കൂടിയ ലീനിയർ സമവാക്യമായി പരിവർത്തനം ചെയ്യും അതാണ് ഈ സബ്സ്റ്റിട്യൂഷന് പിന്നിലെ ആശയം അതിനാൽ ഇത് ഒരിക്കൽ ചെയ്തുകഴിഞ്ഞാൽ നമുക്ക് ഇത് z ln x എന്ന് മാറ്റിയെഴുതാം അത് നമുക്ക് നൽകുന്നു അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സമവാക്യത്തിൽ എല്ലാ ഡെറിവേറ്റീവു പദങ്ങളും z ൻറെ രൂപത്തിൽ നമുക്ക് ആവശ്യമാണ് അതിനാൽ മാറ്റാൻ ആവശ്യമായ ഒരു ഡെറിവേറ്റീവ് അതാണ്

ഇപ്പോൾ രണ്ടാമത്തെ ഓർഡർ ടേമിലേക്ക് മടങ്ങിവരിക പറഞ്ഞ സ്വതന്ത്ര വേരിയബിളിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ ഇത് എങ്ങനെ കാണപ്പെടും

ഇവിടെ നമ്മൾ താഴെ പറയും പ്രകാരം സൂചിപ്പിക്കുക

അതിനാൽ ഇവ പൊതുവായ രൂപങ്ങളാണ് നമ്മുടെ യഥാർത്ഥ സമവാക്യം കോൺസ്റ്റന്റ് കോയിഫിഷ്യൻറുകളോട് കൂടിയ ഈ ലീനിയർ സമവാക്യത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുമെന്ന് നമുക്ക് മനസ്സിലാകും നമുക്ക് ഇത് ഉണ്ടെങ്കിൽ ഈ z ൽ നിന്ന് സ്വതന്ത്രമാകും അതായത് ഈ സമവാക്യത്തിൽ കോൺസ്റ്റന്റ് കോയിഫിഷ്യൻറുകൾ മാത്രമേ ഉണ്ടാകൂ കോൺസ്റ്റന്റ് കോയിഫിഷ്യൻറുകളോട് കൂടിയ സമവാക്യം എങ്ങനെ പരിഹരിക്കണമെന്ന് നമ്മൾക്കറിയാം ഈ ആശയം പ്രകടിപ്പിക്കാൻ നമുക്ക് ഈ ഉദാഹരണത്തിലൂടെ പോകാം ഈ ന്റെ പൊതുവായ പരിഹാരം ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ നമ്മൾ ഈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അല്ലെങ്കിൽ z അത് x ന്റെ ലോഗരിഥമിക് തുല്യമാണ് അപ്പോൾ നമുക്ക് ഈ ഉണ്ടെങ്കിൽ ഇവിടെ ഈ സമവാക്യം പരിവർത്തനം ചെയ്യപ്പെടുമെന്ന് നമുക്ക് ഇതിനകം അറിയാം അതിനാൽ ഇപ്പോൾ നമുക്ക് ഇത് ലളിതമാക്കാം അത് അതിനാൽ ഈ സമവാക്യം ഇപ്പോൾ കോൺസ്റ്റന്റ് കോയിഫിഷ്യൻറുകളോട് കൂടിയാണ് അതിനാൽ ഇവിടെയുള്ള എല്ലാ കോയിഫിഷ്യൻറുകളും കോൺസ്റ്റന്റ് ആണ് എന്നാൽ യഥാർത്ഥ സമവാക്യത്തിൽ കോയിഫിഷ്യൻറുകൾ കോൺസ്റ്റന്റ്മായിരുന്നില്ല അതിനാൽ ഈ സമവാക്യം ഇപ്പോൾ കോൺസ്റ്റന്റ് കോയിഫിഷ്യൻറുകളുള്ള ഒരു ചോദ്യമായി ചുരുക്കിയിരിക്കുന്നു അത് ഇപ്പോൾ പരിഹരിക്കാൻ എളുപ്പമാണ് അതിനാൽ ഈ സമവാക്യത്തിന്റെ കോംപ്ലിമെൻററി ഫംഗ്ഷൻ ആയിരിക്കും അഥവാ ഹോമോജീനിയസ് സമവാക്യത്തിന്റെ പൊതുവായ പരിഹാരം അർത്ഥമാക്കുന്നത് വലതു വശം 0 എന്ന് സജ്ജീകരിച്ചിരിക്കുന്ന സമവാക്യത്തിന്റെ പരിഹാരം എന്നാണ് ശേഷം യഥാർത്ഥ വേരിയബിളുകളിലേക്ക് തിരികെ എഴുതേണ്ടത് ഉണ്ട് അപ്പോൾ അത് എന്ന് ലഭിക്കുന്നു

അതിനാൽ പർട്ടിക്കുലർ ഇന്റഗ്രൽ വെറും മാത്രമാണ് അത് കോൺസ്റ്റന്റ് കോയിഫിഷ്യൻറുകളോട് കൂടിയ ഈ സമവാക്യത്തിൻറെ പർട്ടിക്കുലർ ഇന്റഗ്രൽ ആണ് നമുക്ക് നൽകിയിരിക്കുന്ന സമവാക്യത്തിൻറെ പർട്ടിക്കുലർ ഇന്റഗ്രൽ ലഭിക്കുന്നതിന് ഇതിനെ x ൻറെ ഫോമിലേക്ക് തിരിച്ച് എഴുതേണ്ടതുണ്ട് അതിനാൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉത്തരം ഈ എന്ന പർട്ടിക്കുലർ ഇന്റഗ്രൽ ആണ് തന്നിരിക്കുന്ന സമവാക്യത്തിന്റെ ഒരു പർട്ടിക്കുലർ ഇന്റഗ്രൽ ആണ് ഇത് നമുക്കുള്ള കോംപ്ലിമെന്ററി ഫംഗ്ഷനും പർട്ടിക്കുലർ ഇന്റഗ്രലും കൂട്ടിച്ചേർത്തു തന്നിരിക്കുന്ന ഡിഫറെൻഷ്യൽ സമവാക്യത്തിൻറെ പരിഹാരം എഴുതാം അതിനാൽ പൊതുവായ പരിഹാരം ഇത് നൽകുന്നു അതിനാൽ ഇത് നമ്മളുടെ തന്നിരിക്കുന്ന സമവാക്യത്തെ തൃപ്തിപ്പെടുത്തും ഇതിന് എന്നീ 2 ആർബിട്രറി കോൺസ്റ്റന്റുകൾ ഉണ്ട് അതിനാൽ ഇത് നമുക്ക് നൽകിയിരുന്ന നോൺ കോൺസ്റ്റന്റ് കോയിഫിഷ്യൻറുകളോട് കൂടിയ നോൺ ഹോമോജിനിയസ് സമവാക്യത്തിന്റെ അതായത് ഇവിടെ കോശി ഓയിലർ സമവാക്യത്തിൻറെ പൊതു പരിഹാരമായി വർത്തിക്കുന്നു ഇപ്പോൾ ഈ കോഷി ഓയിലർ ഫോമിലേക്ക് ചുരുക്കാവുന്ന ചില സമവാക്യങ്ങളുണ്ടെന്ന ആശയത്തെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ സംസാരിക്കും തുടർന്ന് കോഷി ഓയിലർ ഫോം എങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്കറിയാം ഉദാഹരണത്തിന് നമുക്ക് ഉള്ളപ്പോൾ ഇത്തരത്തിലുള്ള സമവാക്യം ഇവിടെ കോയിഫിഷ്യന്റുകൾ എന്നിവയാണ് ഉള്ളത് എല്ലാ പദങ്ങളിലും രൂപത്തിൽ ഉണ്ട് ഈ സാഹചര്യത്തിൽ നമുക്ക് ഇവിടെ എന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സമവാക്യം കോഷി ഓയിലർ സമവാക്യത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടും കൂടാതെ കോഷി ഓയിലർ സമവാക്യം എങ്ങനെ പരിഹരിക്കണമെന്ന് നമ്മൾക്കറിയാം അതിനാൽ ഈ മാറ്റത്തിനൊപ്പം അതായത് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് dydx താഴെ കാണും പ്രകാരം എഴുതപ്പെടും അതിനാൽ ഇപ്പോൾ ഈ സമവാക്യത്തിലേക്ക് നമ്മൾ ഇവ മാറ്റിസ്ഥാപിക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കുക അതിനാൽ നമ്മൾ ഇത് പരിവർത്തനം ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ എത്തുന്നത് ഈ വലത് വശത്തെ ഈ bn കൊണ്ട് വിഭജിച്ച് സമവാക്യം മുഴുവൻ ഈ bn കൊണ്ട് ഹരിച്ചുകൊണ്ട് അതിനാൽ വലതുവശം ഈ x ആയി മാറുന്നു അവിടെ v യുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അവിടെ x നൽകുന്നതെന്തും പകരം വയ്ക്കണം അത് ഈ bn കൊണ്ട് വിഭജിക്കപ്പെടും തുടർന്ന് ഇടതു വശം ഇവിടെ എന്നാൽ ഈ സമവാക്യം നമ്മൾ ഇതിനുമുമ്പ് ചർച്ച ചെയ്ത അതേ സമവാക്യം ആണെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു അതിനാൽ ഇവിടെ nth ഓർഡർ പദത്തിന്റെ കോഫിഫിഷ്യന്റ് മറ്റൊരു പദത്തിൽ ആണ് അങ്ങനെ v വരെ നമുക്ക് ഉണ്ട് ഇത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത കോശി ഓയിലർ സമവാക്യമാണ് അത് എങ്ങനെ പരിഹരിക്കണം എന്ന് നമുക്കറിയാം ഇപ്പോൾ ഇത് തെളിയിക്കാൻ നമുക്ക് ഈ ഉദാഹരണത്തിലൂടെ പോകാം അതിനാൽ നമ്മൾ ഇത് എടുക്കും നമ്മൾ ഇവിടെ ഈ 1x v എന്ന സബ്സ്റ്റിട്യൂഷൻ എടുത്തിട്ടുണ്ട് അത് ഇപ്പോൾ പരിവർത്തനം ചെയ്യും

പിന്നെ നമ്മൾ അങ്ങനെ കണക്കാക്കുമ്പോൾ രണ്ടാമത്തെ ഓർഡർ ഡെറിവേറ്റീവ് നമ്മൾക്ക് ഒരു മാറ്റവും ലഭിക്കില്ല പക്ഷേ v സംബന്ധിച്ച് നിങ്ങൾക്ക് രണ്ടാമത്തെ ഓർഡർ ഡെറിവേറ്റീവ് ലഭിക്കും തന്നിരിക്കുന്ന സമവാക്യത്തിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നാം പദത്തിൽ ലഭിക്കും രണ്ടാംപദത്തിൽ v ഉണ്ടാകും അങ്ങനെ എന്ന സമവാക്യം ലഭിക്കുന്നു ഇപ്പോൾ ഈ സമവാക്യം കൃത്യമായി ഈ കോഷി ഓയിലർ ഫോം നമ്മൾ ചർച്ച ചെയ്ത സമവാക്യമാണ് അതിനാൽ ഈ സ്വതന്ത്ര വേരിയബിളിന് അനുയോജ്യമായ ഒരു പുതിയ സ്വതന്ത്ര വേരിയബിൾ പകരമായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു നമ്മൾ മുമ്പ് പരിഹരിച്ച കോഷി ഓയിലർ സമവാക്യത്തിന്റെ രൂപമാണിത് അതിനാൽ നമ്മൾ ഇപ്പോൾ അങ്ങനെ തന്നെ ചെയ്യും ഇവിടെ നമ്മൾ സബ്സ്ടിട്യൂറ്റ് ചെയ്യുന്നു ഇപ്പോൾ ഒരു പുതിയ സമവാക്യമാണ് ലഭിക്കുന്നത് അത് ആണ് ഇതിനുള്ള കോംപ്ലിമെന്ററി ഫംഗ്ഷൻ അതാണ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പാർട്ടികുലർ ഇന്റഗ്രൽ ആണ് അതിനാൽ ഒടുവിൽ പർട്ടികുലർ ഇന്റഗ്രൽ ഇപ്പോൾ നമുക്ക് എഴുതാൻ കഴിയുന്ന പൊതുവായ പരിഹാരം നമുക്ക് ഈ പർട്ടികുലർ ഇന്റഗ്രലിലേക്ക് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ചേർക്കാം ഇത് പൊതുവായ പരിഹാരമായിരിക്കും തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യം ആദ്യം കോഷി ഓയിലർ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്തു തുടർന്ന് കോഷി ഓയിലർ സമവാക്യം കോൺസ്റ്റന്റ് കോയിഫിഷ്യൻറുകളോട് കൂടിയ ലീനിയർ സമവാക്യത്തിലേക്ക് മാറ്റി അത് ഈ കോംപ്ലെമെന്ററി ഫങ്ക്ഷന്റെയും പർട്ടികുലർ ഇന്റഗ്രൽന്റെയും സഹായത്തോടെ എങ്ങനെ പരിഹരിക്കണമെന്ന് നമ്മൾക്കറിയാം ഇവിടെ നിഗമനത്തിലെത്തുമ്പോൾ നമ്മൾ ഇന്ന് ഓയിലർ കോഷി സമവാക്യങ്ങൾ ചർച്ച ചെയ്തു ഇവിടെയുള്ള പ്രത്യേക അ കോയിഫിഷന്റുകളുടെ അടിസ്ഥാനത്തിൽ ഉള്ള സമവാക്യത്തിന്റെ ഒരു പ്രത്യേക രൂപമാണിത് കോഷി ഓയിലർ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന സമവാക്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ എന്ന ഈ ഫോം എടുത്തിട്ടുണ്ട് ഈ സമവാക്യം ഈ കോഷി ഓയിലർ സമവാക്യത്തിലേക്ക് ചുരുക്കാം എന്ന സബ്സ്റ്റിട്യൂഷൻ ഇതിനെ കോൺസ്റ്റന്റ് കോയിഫിഷ്യൻറുകളോട് കൂടിയ ഒരു ലീനിയർ ഡിഫറൻഷ്യൽ സമവാക്യത്തിലേക്ക് നയിക്കും ലെക്ച്ചർകൾ തയ്യാറാക്കാൻ നമ്മൾ ഉപയോഗിച്ച റഫറൻസുകൾ ഇവയാണ് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി